നാം ഇപ്പോൾ ഊർജ്ജവിമോചനനിരക്ക് സംബന്ധിച്ച അധ്യായത്തിലേക്ക് പോകുന്നു വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സിലെ ഒടിവുകൾ സംബന്ധിച്ച യന്ത്രശാസ്ത്രം പല ആശയങ്ങളും ഊർജ്ജം നോക്കുന്നതിലൂടെ സുഖമായി മനസ്സിലാക്കാൻ കഴിയും മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ ഇൻഗ്ലിസ് നിർദേശിച്ച സൊലൂഷൻ പരിഹാരം വിവരണം കണ്ടിട്ടുണ്ടെങ്കിലും തുടർച്ചയുടെ പേരിൽ നാം അതിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു ഇൻഗ്ലിസ് സൊലൂഷനിൽ നാം എന്താണ് പഠിച്ചത് നിങ്ങൾക്ക് ദീർഘവൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള അനന്തമായ ഒരു പ്ലേറ്റിന്റെ തകിട് പരമാവധി സമ്മർദ്ദം സിഗ്മ ഗുണിക്കണം 1 അധികം 2a ഹരിക്കണം b എന്നാണെന്ന് മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രാക്ചർ മെക്കാനിക്സിലെ പല വശങ്ങളും നിങ്ങളുടെ എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ പ്രശ്നത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ദീർഘവൃത്തം എടുക്കുമ്പോൾ പ്രധാന അക്ഷം 2a ആയി എടുക്കുമെന്നും കൂടാതെ വിള്ളലിന്റെ നീളം 2a എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു നടുവിൽ ഒരു വിള്ളൽ ഉള്ളപ്പോൾ ഞാൻ അതിനെ 2a എന്നും ലേബൽ ചെയ്യും ചെറിയ അക്ഷത്തിനു 'b' എന്നും നൽകും ഇൻഗ്ലിസ് മുന്നറിയിപ്പ് നൽകിയത് എന്തെന്നാൽ എലിപ്റ്റിക്കൽ ദ്വാരം ഒരു വിള്ളലിലേക്ക് കുറയുമ്പോൾ 'b' 0 ആയി മാറുമ്പോൾ സമ്മർദ്ദങ്ങൾ വളരെ ഉയർന്നതാണ് നിങ്ങൾ നോക്കേണ്ട മറ്റൊരു പ്രശ്നം എനിക്ക് ഏകീകൃത ലോഡിംഗിന് വിധേയമായ ഒരു അനന്തമായ പ്ലേറ്റ് ഉണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം കാണണം വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ കാര്യത്തിൽ നാം ഏകീകൃത ലോഡിംഗ് ഉള്ള അനന്തമായ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഒരു ഏകീകൃത ലോഡിംഗ് പ്രയോഗിച്ചു നാം സ്ട്രെസ് ഫീൽഡ് സമ്മർദ തലം വികസിപ്പിക്കുമ്പോൾ ഒരു വിള്ളലിന്റെ പ്രശ്നത്തിനായി നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ഏകീകൃത ലോഡിംഗ് അല്ലെങ്കിൽ ഒരു ദ്വി അക്ഷീയ ലോഡിംഗ് നോക്കുകയാണോ അത് ക്രാക്ക് ടിപ്പ് സ്ട്രെസ് വിടവിന്റെ അറ്റത്തുള്ള സമ്മർദം ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡുകൾ സ്ഥാനമാറ്റ തലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അധ്യായം എടുക്കുമ്പോൾ നമ്മൾ നോക്കും ഈ അധ്യായത്തിൽ നമ്മൾ ഊർജ്ജ സമീപനങ്ങൾ പരിശോധിക്കും ഇൻഗ്ലിസ് സൊലൂഷന്റെ പെട്ടെന്നുള്ള അനന്തരഫലങ്ങൾ ഒരു ചെറിയ ലോഡിന് പോലും വിള്ളൽ വളർത്തുകയും ഘടകത്തെ കഷണങ്ങളാക്കുകയും ചെയ്യും ഇതിനെ ഗ്രിഫിത്തിന്റെ വിഷമാവസ്ഥ എന്ന് മുദ്രകുത്തുന്നു ഇത് ഗ്രിഫിത്തിന്റെ മാത്രം വിഷമാവസ്ഥയല്ല ഇൻഗ്ലിസ് സൊലൂഷൻ നോക്കുന്ന ആർക്കും ഒരു സോളിഡ് ഖരവസ്തു ഇൻഗ്ലിസ് സൊലൂഷനു ശേഷം എങ്ങനെ സോളിഡ് ആയി തുടരുമെന്ന് അത്ഭുതപ്പെടാൻ മാത്രമേ കഴിയൂ സോളിഡുകളിൽ വിള്ളലും അവയും അടങ്ങിയിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ് നമ്മുടെ പ്രായോഗിക നിരീക്ഷണം അങ്ങനെ തന്നെ തുടരുക എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് നിങ്ങൾക്ക് മറ്റ് ചില ഖരരൂപങ്ങൾ നിലനിർത്താൻ സോളിഡുകളെ സഹായിക്കുന്ന പ്രവർത്തന സംവിധാനങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ ഗ്രിഫിത്തിന്റെ വിശകലനത്തിനു ഇത് പ്രധാനമാണ് ഉപരിതല ഊർജ്ജം ഒരു ദ്രാവകത്തിന്റെ ഉപരിതല പിരിമുറുക്കത്തിന് സമാനമായി സോളിഡുകളുടെ എല്ലാ ഉപരിതലങ്ങളും ഉപരിതലഊർജ്ജമോ സ്വതന്ത്രഊർജ്ജമോ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ആ ദിവസങ്ങളിൽ ഗ്രിഫിത്ത് ഗ്ലാസിൽ പ്രവർത്തിക്കുകയായിരുന്നു ഗ്ലാസിലെ ഉപരിതല ഊർജ്ജം വളരെ വളരെ ചെറുതാണ് അതിനാൽ നിങ്ങൾ ശരിക്കും രണ്ടാമത്തെ ഓർഡർ ഇഫക്റ്റുകൾ നോക്കുകയാണ് നിങ്ങൾക്ക് ഒരു ആശയപരമായ ചുവടുവെപ്പില്ലെങ്കിൽ ഉപരിതല ഊർജ്ജത്തിന്റെ പങ്കിനെക്കുറിച്ച് ഒരാൾ ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് ഉപരിതല ഊർജ്ജം ഉണ്ടാകുന്നത് ഉപരിതല ഊർജ്ജം ഉണ്ടാകുന്നത് ഉപരിതലത്തിനടുത്തുള്ള ആറ്റങ്ങൾ ഖരത്തിന്റെ ആന്തരിക ഭാഗത്തെ ആറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന കാരണമാണ് ഖരത്തിന്റെ ആന്തരികഭാഗം കാണുക ആറ്റത്തിന് ചുറ്റും എല്ലാ വശത്തും ആറ്റങ്ങളുണ്ട് അതിനാൽ ഇത് സന്തുലിതാവസ്ഥയിൽ തുടരുന്നു അതിനാൽ നിങ്ങൾക്ക് ഉൾഭാഗത്തുള്ള ആറ്റത്തെ എല്ലാ ദിശകളിലേക്കും അയൽ ആറ്റങ്ങൾ ഏകദേശം ഒരുപോലെ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യുന്നതായി കാണാം പക്ഷേ എനിക്ക് ഉപരിതലത്തിൽ ആറ്റം ഉള്ളപ്പോൾ അങ്ങനെയല്ല ഇത് ഉപരിതല ഊർജ്ജത്തിലേക്ക് നയിക്കുന്നു ഇത് ഒരു ദ്രാവകത്തിന്റെ ഉപരിതല പിരിമുറുക്കത്തിന് സമാനമാണ് ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ആശയപരമായി മനസ്സിലാക്കി തരാൻ പോകുന്നു ഉപരിതലത്തിൽ എന്ത് സംഭവിക്കും ഒരു വശത്ത് ചുറ്റുമുള്ള ആറ്റങ്ങളൊന്നുമില്ല അതിനാൽ മറ്റൊരു തരത്തിലുള്ള സന്തുലിതാവസ്ഥ ആവശ്യമാണ് വാസ്തവത്തിൽ സ്വതന്ത്ര ഉപരിതലത്തിലെ ആറ്റങ്ങളും ചുവടെയുള്ളവയും ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വീണ്ടും ക്രമീകരിക്കേണ്ടതുണ്ട് അതുവഴി സ്വതന്ത്ര ഉപരിതലത്തിനടുത്തുള്ള വസ്തുക്കളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു അത്തരം രൂപഭേദത്തിനു ഊർജ്ജം ആവശ്യമാണ് അതിനെ ഉപരിതല ഊർജ്ജം എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ ഉപരിതല ഊർജ്ജത്തിന്റെ പങ്ക് നോക്കുന്നത് ഗ്രിഫിത്ത് മുന്നോട്ടുവച്ച ഒരു ആശയപരമായ ഘട്ടമാണ് കൂടാതെ വിവിധതരം വസ്തുക്കൾക്കായി ഉപരിതല ഊർജ്ജത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ പരിശോധിക്കും എനിക്ക് ഇവിടെ മെറ്റീരിയലുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് എനിക്ക് ഉപരിതല ഊർജ്ജം ഉണ്ട് അവ തന്നിരിക്കുന്നത് ജൂൾ ഹരിക്കണം ചതുരശ്ര മീറ്ററിൽ ആണ് ചെമ്പിന് ഇത് 0 98 മിതമായ ഉരുക്ക് 1 20 അലുമിനിയം അലോയ് 0 6 ഗ്ലാസ് 2 30 ഐസ് 0 07 ഡയമണ്ട് 5 50 ആണ് വജ്രത്തിന്റെ വില വളരെ കൂടുതലായതിനാൽ ഗ്രിഫിത്തിന് അതുമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അദ്ദേഹം ഗ്ലാസിൽ പ്രവർത്തിച്ചു ഡയമണ്ട് ഒഴികെയുള്ള മറ്റ് വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലാസിന് ഏറ്റവും ഉയർന്ന ഉപരിതല ഊർജ്ജം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ പട്ടിക മറ്റൊരു ഊർജ്ജം നൽകുന്നു അത് 'ഗാമാ പി' എന്ന് നൽകുന്നു ഇത് വിള്ളലുള്ള പ്രതലത്തിനടുത്ത് പ്ലാസ്റ്റിക് രൂപഭേദം വരുത്താൻ ആവശ്യമായ ഊർജ്ജമാണ് അതിന്റെ മൂല്യം എന്താണ് മൈൽഡ് സ്റ്റീൽന്റെ കാര്യത്തിൽ ഇത് വളരെ ഉയർന്നതാണ് 'ഗാമ എസ്' 1 20 മാത്രമാണ് 'ഗാമ പി' 125000 ആണ് അലുമിനിയം അലോയിയുടെ കാര്യത്തിൽ ഇത് 4000 ആണ് വാസ്തവത്തിൽ അധ്യായത്തിൽ പിന്നീട് ഗ്രിഫിത്തിന്റെ വിശകലനം ഇർവിൻ എങ്ങനെയാണ് വിപുലീകരിച്ചത് ബ്രിട്ടിൽ പൊട്ടുന്ന സോളിഡുകൾ മുതൽ ഡക്റ്റൈൽ സോളിഡുകൾ വരെ ഗ്രിഫിത്തിന്റെ വിശകലനം ബാധകമാണ് 'ഗാമാ പി' ഉപയോഗിച്ച് ഗ്രിഫിത്തിന്റെ സമീപനത്തിന്റെ ലളിതമായ എക്സ്ട്രാപോളേഷൻ തുടർച്ച ഉപയോഗിച്ച് ഡക്റ്റൈൽ സോളിഡുകൾക്കായി ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആശയങ്ങൾ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ 'ഗാമ പി' യുടെ മൂല്യം ഉടനടി കാണിക്കുന്നത് ഈ അധ്യായത്തിൽ പ്രധാന ഭാഗത്ത് നാം ബ്രിട്ടിൽ പൊട്ടുന്ന സോളിഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സ്ട്രെസ് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഈ അധ്യായത്തിൽ നമ്മൾ ഊർജ്ജം നോക്കേണ്ടതുണ്ട് അതിനാൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജിയെക്കുറിച്ചുള്ള ആശയങ്ങൾ അവലോകനം ചെയ്യുന്നത് നല്ലതാണ് ലളിതമായ വിവിധ കേസുകൾക്കായി നമ്മൾ ഇത് പരിശോധിക്കുകയും ഞങ്ങൾ സ്വീകരിക്കുന്ന രീതിശാസ്ത്രത്തെക്കുറിച്ച് ഉറപ്പുനൽകുകയും ചെയ്യും ഇവയിൽ ചിലത് ഈ അധ്യായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും ആദ്യം നമുക്ക് ഒരു ലളിതമായ നീരുറവയുടെ കാര്യം നോക്കാം ഇത് ഒരു രേഖീയ നീരുറവയാണ് ആനിമേഷൻ വളരെ ശ്രദ്ധാപൂർവ്വം കാണുക കൂടാതെ പി സ്ഥാനചലനം എന്നിവയ്ക്കെതിരായ ഗ്രാഫ് നിങ്ങൾക്ക് ഉണ്ട് ഞാൻ ആനിമേഷൻ വീണ്ടും ചെയ്യും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകളിൽ പി എങ്ങനെ കാണിച്ചിരിക്കുന്നു എന്നത് മനസിലാക്കാം പി 0 മുതൽ അന്തിമ മൂല്യം വരെ ക്രമേണ വ്യത്യാസപ്പെടുന്നുവെന്ന് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കാണിക്കുന്നു ഇത് വളരെ പ്രധാനമാണ് P ക്രമേണ വിതരണം ചെയ്യുമ്പോൾ സ്പ്രിംഗിന്റെ വ്യതിചലനം ഡെൽറ്റയാണ് അതിനാൽ വളവിന് കീഴിലുള്ള വിസ്തീർണ്ണം സ്പ്രിങ്ങിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ആണ് നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം കാരണം P ക്രമേണ പ്രയോഗിക്കുന്നു യിലേക്ക് P യുടെ പകുതി ഗുണിക്കണം ഡെൽറ്റ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി 'U' തുല്യമാണെന്ന് കാണാം എനിക്ക് സ്ഥിരമായ ഭാരം പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ ഊർജ്ജം പി ഗുണനം ഡെൽറ്റ ആയിരിക്കും അനുബന്ധ സ്ഥാനചലനം ഡെൽറ്റയാണ് സോളിഡ് മെക്കാനിക്സിലെ പല പ്രശ്നങ്ങളിലും നിങ്ങൾ ഒരു അന്തിമ ലോഡ് കാണിക്കുമ്പോൾ 0 മുതൽ അന്തിമ മൂല്യം വരെ ക്രമേണയുള്ള പ്രക്രിയയിലൂടെയാണ് അന്തിമ ലോഡ് എത്തിയതെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു ഇത് വളരെ പ്രധാനമാണ് ഈ സൂക്ഷ്മതകളെല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഒരു സ്പ്രിംഗിന്റെ കാര്യത്തിലും പി 0 ൽ നിന്ന് ക്രമേണ വ്യത്യാസപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ആനിമേഷൻ ശ്രദ്ധാപൂർവ്വം ചേർത്തിട്ടുണ്ട് സംഭരിച്ച സ്ട്രെയിൻ എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സാധാരണ വലിവിനു വിധേയമായ ഒരു ശരീരം കത്രിക്കൽ ഷിയർ സമ്മർദ്ദത്തിന് വിധേയമായ ഒരു ശരീരം എല്ലാ സമ്മർദ്ദ ഘടകങ്ങളുടെയും സംയോജനം മുതലായവയിലേക്ക് നമ്മൾ ഇത് വ്യാപിപ്പിക്കും ഈ അധ്യായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുമ്പോൾ ഈ പദപ്രയോഗങ്ങളെല്ലാം പ്രയോജനപ്പെടും അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് ഒരു ചെറിയ മൂലകം എടുക്കുകയും നിങ്ങൾക്ക് സാധാരണ സമ്മർദ്ദം മാത്രമേ ഉണ്ടാകൂ കാരണം ഈ മൂലകം നീളമേറിയതായും അതിൽ പ്രവർത്തിക്കുന്ന ശക്തി നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും നിങ്ങൾക്ക് അനുബന്ധ സ്ഥാനചലനം കണ്ടെത്താനാകും അത് തികച്ചും നേരെയാണ് അതിനാൽ എനിക്കുള്ളത് 'സിഗ്മ x dy dz' ന്റെ പകുതിയായി വർദ്ധിച്ച സ്ട്രെയിൻ എനർജികൾ എനിക്കുണ്ട് ഇത് സമ്മർദ്ദം പ്രവർത്തിക്കുന്ന മേഖലയാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് ശക്തിയുടെ ഘടകവും 'എപ്സിലോൺ x dx' അനുബന്ധ സ്ഥാനചലനവും നൽകുന്നു നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ വർദ്ധിക്കുന്ന സമ്മർദ്ദ ഊർജ്ജം സിഗ്മ x എപ്സിലോൺ x ന്റെ dv യിലേക്കുള്ള പകുതിയാണ് നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് പ്രവർത്തിക്കുമ്പോൾ സമാനമായ ഒരു പദപ്രയോഗം ഞങ്ങൾ വികസിപ്പിക്കും നിങ്ങൾക്ക് വർധിക്കുന്ന അനന്തമായ ഘടകം ഉണ്ട് നിങ്ങൾക്ക് "dx dy dz" ഉണ്ട് ഇത് ഷിയർ സമ്മർദ്ദത്തിന് വിധേയമാണ് ഇവിടെ വീണ്ടും പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണെന്നും അനുബന്ധ സ്ഥാനചലനം എന്താണെന്നും നിങ്ങൾക്ക് കണ്ടെത്താനാകും ബലം ടോ xy dx dz ഉം സ്ഥാനചലനം ഗാമാ xy dy ഉം ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു നിങ്ങൾക്ക് പകുതി വരുന്ന ഘടകം ഉണ്ട് കാരണം സ്ട്രെസ് മാഗ്നിറ്റ്യൂഡ് ക്രമേണയാണ് പ്രയോഗിക്കുന്നന്നത് 0 മുതൽ അവസാന മാഗ്നിറ്റ്യൂഡ് ടോ xy വരെ ക്രമേണ വ്യത്യാസപ്പെടുന്നു ഇവിടെ മൂലകത്തിൽ സംഭരിച്ചിരിക്കുന്ന വർദ്ധിച്ചുവരുന്ന സ്ട്രെയിൻ എനെർജി ടോ xy ഗാമ xy dV യുടെ പകുതിയാണെന്ന് വീണ്ടും കാണാം അതിനാൽ വ്യാപ്തത്തിനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് ഓരോ വോളിയത്തിനും നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് കണക്കാക്കുന്നു കൂടാതെ നമ്മൾ ഒരു യൂണിറ്റ് അടിസ്ഥാന അളവ് വോളിയത്തിനായി നോക്കും ഈ അധ്യായത്തിൽ ഞങ്ങൾ യൂണിറ്റ് കനം നോക്കും പരിമിതമായ കനം മുതലായവയും ഞങ്ങൾ നോക്കും ഞാൻ ആ സമവാക്യങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി ഉപയോഗിച്ചു കാരണം ഞങ്ങൾ ഏത് സന്ദർഭത്തിലാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫ്രാക്ചർ മെക്കാനിക്സ് കട്ടിയുള്ളതിന് വളരെ രസകരമായ ഒരു ചിഹ്നവും ഉപയോഗിക്കുന്നു മാതൃകയുടെ കനം പ്രതിനിധീകരിക്കുന്നതിന് അക്ഷരം 'B' ഉപയോഗിക്കുന്നു നിസ്സംശയമായും ക്ലാസിക്കുകളായ ചില പഴയ പുസ്തകങ്ങൾ റഫർ ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവിടെ 'B' മാതൃകയുടെ കനമായി കാണാം അതിനാൽ നമ്മുടെ ചർച്ചകളിൽ നിങ്ങൾ കണ്ടെത്തും കുറച്ച് സ്ലൈഡുകൾക്ക് പിന്നീട് കനം സൂചിപ്പിക്കാൻ ഞങ്ങൾ അതേ പ്രതീകാത്മകത ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ ഇത് വ്യക്തിഗത സ്ട്രെസ് മാഗ്നിറ്റ്യൂഡുകൾക്കായി കണ്ടു എനിക്ക് സമ്മർദ്ദങ്ങളുടെ സംയോജനമുണ്ടെന്ന് കരുതുക അപ്പോൾ എനിക്ക് അന്തിമ പദപ്രയോഗം 'സിഗ്മ x എപ്സിലോൺ x സിഗ്മ y എപ്സിലോൺ y സിഗ്മ z എപ്സിലോൺ z' യുടെ പകുതി കൂട്ടണം ടോ xy ഗാമ xy കൂട്ടണം ടോ yz ഗാമ yz കൂട്ടണം ടോ xz ഗാമ xz dV സിസ്റ്റത്തിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വ്യാപ്തിയുമായി ഒരു സംയോജനം നടത്തുന്നു ഇവിടെ നിങ്ങൾ സമ്മർദ്ദത്തിന്റെയും സ്ട്രെയിൻറെയും വലിവ് ഉൽപ്പന്നം കണ്ടെത്തുന്നു സമ്മർദ്ദങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഈ പദപ്രയോഗങ്ങൾ നോക്കുന്നതും അഭികാമ്യമാണ് അതിനാൽ എനിക്ക് അത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ സ്ട്രെസ് സ്ട്രെയിൻ ബന്ധങ്ങൾ ഉപയോഗിക്കണം ആളുകൾ ഉപയോഗിക്കുന്ന അപകടങ്ങളിലൊന്ന് അവർ ഒരു ടെൻഷൻ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ സ്ട്രെയിൻ അക്ഷീയ സമ്മർദ്ദത്തിന്റെ ഒരു പ്രവർത്തനം മാത്രമാണ് കാരണം സമ്മർദ്ദങ്ങളുടെ മറ്റ് ഘടകങ്ങൾ 0 ആണ് ഒരു സാധാരണ സാഹചര്യത്തിനായി നിങ്ങൾ ഇത് എഴുതുകയാണെങ്കിൽ സമ്മർദ്ദത്തിന്റെ മറ്റ് ഘടകങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിന് ഘടകമുണ്ടാകും നിങ്ങൾ അക്ഷീയ സ്ട്രെയിൻ എഴുതുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ എപ്സിലോൺ x എന്നത് നിങ്ങൾ സിഗ്മ x കുറക്കണം 'സിഗ്മ y' ന്യൂ തവണ കൂട്ടണം സിഗ്മ z ന്റെ 1 ഹരിക്കണം 'E' എന്ന് എഴുതുന്നു ഇത് ഉൾപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് ഇത് വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു സാധാരണ തെറ്റ് ഇതാണ് അവർ ഒരു ടെൻഷൻ ടെസ്റ്റിൽ നിന്ന് ഒരു സാധാരണ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അവർ ഒരിക്കലും ടെൻഷൻ ടെസ്റ്റിൽ നിന്ന് പുറത്തുവരില്ല ഒരു ടെൻഷൻ പരിശോധനയിൽ സിഗ്മ y സിഗ്മ z എന്നിവ 0 ആണ് അതിനാൽ സമ്മർദ്ദം ഹരിക്കണം എപ്സിലോൺ എന്നത് സിഗ്മ ഹരിക്കണം E ക്ക് തുല്യമാണ് നിങ്ങൾക്ക് അത് ഒരു സാധാരണ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ സാധാരണ സ്ട്രെയിനുകൾ ഈ രീതിയിൽ സാധാരണ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷിയർ സ്ട്രെയിനിനു ഒരു പ്രശ്നവുമില്ല ഗാമാ xy ടോ xy യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാമാ yz ടോ yz മായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാമാ xz ടോ xz മായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞാൻ ഇവ ഉപയോഗിക്കുമ്പോൾ സമ്മർദ്ദ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്ട്രെയിൻ എനർജി നേടാൻ കഴിയും അത് ഇതുപോലെ വായിക്കുന്നു അതിനാൽ എനിക്ക് മൊത്തം സ്ട്രെയിൻ എനർജി ലഭിക്കണമെങ്കിൽ ഞാൻ അതിനെ വ്യാപ്തിയുമായി സമന്വയിപ്പിക്കും എനിക്ക് 1 ഹരിക്കണം E ഗുണിക്കണം 'സിഗ്മ x സ്ക്വയർ കൂട്ടണം സിഗ്മ y സ്ക്വയർ കൂട്ടണം സിഗ്മ z സ്ക്വയർ' കുറക്കണം 2 ന്യൂ ഹരിക്കണം ഇ ഗുണിക്കണം 'സിഗ്മ x സിഗ്മ y കൂട്ടണം സിഗ്മ y സിഗ്മ z കൂട്ടണം സിഗ്മ z സിഗ്മ x' കൂട്ടണം 1 ഹരിക്കണം ജി ഗുണിക്കണം 'ടോ xy സ്ക്വയർ കൂട്ടണം ടോ yz സ്ക്വയർ കൂട്ടണം ടോ zx സ്ക്വയർ' E യങ്സ് മോഡുലസ് ആണെന്നും G ഷിയർ മോഡുലസ് ആണെന്നും അവ പോയിസ്സോൻസ് റേഷിയോവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി സ്ട്രെസ് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിച്ചിരിക്കുന്നു അക്ഷീയ ലോഡിംഗിൽ ബാഹ്യമായി പ്രയോഗിക്കുന്ന ലോഡിന്റെ കാര്യത്തിലും നമ്മൾ ഇപ്പോൾ സ്ട്രെയിൻ എനർജി നോക്കും അക്ഷത്തിൽ ലോഡുചെയ്ത അംഗത്തിനായി നമ്മൾ ഇപ്പോൾ നോക്കും ഇതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ലളിതമായ ജ്യാമിതികൾക്കായി ഫ്രാക്ചർ കണക്കുകൂട്ടലിനായി ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന ആശയം എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇവ ഉപയോഗപ്രദമാകുന്ന അടിസ്ഥാന പദപ്രയോഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ പ്രാഥമികകാര്യങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ മുമ്പത്തെ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ അറിവ് ലഭിച്ചിരിക്കണം എങ്കിലും തുടർച്ചയ്ക്കായി നാം അവ അവലോകനം ചെയ്യുകയാണ് അച്ചുതണ്ടിൽ ലോഡുചെയ്ത അംഗത്തെ നാം കാണും ബാഹ്യ ലോഡ് 'P' പ്രയോഗിച്ച ക്രോസ് സെക്ഷന്റെ വിസ്തീർണ്ണം യങ്സ് മോഡുലസ് എന്നിവ കണക്കിലെടുത്ത് സമ്മർദ്ദ ഊർജ്ജത്തിന്റെ അന്തിമ പദപ്രയോഗം നേടുക എന്നതാണ് നമ്മുടെ താൽപര്യം ഇതാണ് നമ്മൾ നോക്കുന്നത് എഴുതാനുള്ള ഒരു മാർഗ്ഗം 'P' യുടെ പകുതി ഗുണിക്കണം ഡെൽറ്റക്ക് തുല്യമാണ് 'U' നമ്മൾ എഴുതിയത് സിഗ്മ X എന്നത് പി ഹരിക്കണം എ അല്ലാതെ മറ്റൊന്നുമല്ല എപ്സിലോൺ x 'P ഹരിക്കണം AE' യ്ക്ക് തുല്യമാണ് കൂടാതെ dU സിഗ്മ x ഗുണിക്കണം എപ്സിലോൺ x ആയിത്തീരുന്നു അതിനാൽ നിങ്ങൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ 'P സ്ക്വയർ ഹരിക്കണം A സ്ക്വയേർഡ് E' യുടെ പകുതി ഗുണിക്കണം dA ഗുണിക്കണം dx എന്ന് ലഭിക്കും അത് വോളിയം നൽകുന്നു ഇത് നമ്മൾ സാധാരണയായി മെലിഞ്ഞ അംഗത്തിനായി ചെയ്യുന്നു പൂർണ്ണ ഊർജ്ജത്തിനായി ഞാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ വോളിയവുമായി സംയോജിപ്പിക്കുമ്പോൾ ഈ 'dA' A dx ആയിത്തീരും അതിനാൽ ഇത് 0 മുതൽ L വരെയുള്ള 'P സ്ക്വയർ ഹരിക്കണം A ഗുണിക്കണം E' യുടെ ഒരു പകുതി ഗുണിക്കണം dx എന്ന് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾ ശരിക്കും മെലിഞ്ഞ അംഗങ്ങളെ നോക്കുമ്പോൾ ആ അംഗത്തിന്റെ ഊർജ്ജം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഡിഎക്സ് പാരാമീറ്ററിൽ ദൂരം ഉൾക്കൊള്ളുന്നു ഇത് വളരെ പ്രസിദ്ധമായ ഒരു പദപ്രയോഗമാണ് ബെൻഡിങ്നും ടോർഷനും സമാനമായ പദപ്രയോഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നിരുന്നാലും നമ്മൾ അവരെ നോക്കും നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ സമവാക്യങ്ങൾ ഉള്ളതാണ് നല്ലത് കൂടാതെ നിങ്ങൾ ഒരു വശം കൂടി നോക്കണം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സമ്മർദ്ദ ഊർജ്ജത്തിന്റെ രൂപമാണ് എനിക്ക് സ്ട്രെയിൻ എനർജി ഉള്ളപ്പോൾ അത് യൂണിറ്റ് വോളിയത്തിലേ 'സിഗ്മ സ്ക്വയർ ഹരിക്കണം E' യുടെ പകുതി ആണ് ഇവിടെ യൂണിറ്റ് വോളിയം എടുക്കുന്നു അതിനാലാണ് നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്തത് അതിനാൽ ഇത് സ്ട്രെയിൻ എനർജി എക്സ്പ്രഷന്റെ രൂപമാണ് കാരണം നമ്മുടെ അന്തിമ താൽപ്പര്യം ഖരരൂപത്തിലുള്ള വിള്ളലിന്റെ സാന്നിധ്യത്തിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നത് എന്ന് കണ്ടെത്തലാണ് ഇതാണ് ഞങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ഈ അധ്യായത്തിൽ ഞങ്ങൾ ഡൈമൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ റിലാക്സേഷൻ അനലോഗിയിലൂടെ പോകും ഞങ്ങൾ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ വികസിപ്പിച്ച ശേഷം ഞങ്ങൾ തിരിച്ചെത്തി സമ്മർദ്ദത്തെയും സ്ഥാനചലനങ്ങളെയും അടിസ്ഥാനമാക്കി അവ ഉരുത്തിരിക്കും വാസ്തവത്തിൽ ഒരു അയഞ്ഞ സമീപനം കൊണ്ട് നമുക്ക് ഗണിതശാസ്ത്രത്തിന്റെ ഭൂരിഭാഗവും ഒഴിവാക്കാനാകും സമ്മർദ്ദ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ടോർഷനിൽ അതിനാൽ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനാൽ നമ്മൾ അതിലേക്ക് പോകുന്നതിനുമുമ്പ് ഘടകത്തിലേക്ക് ലോഡുചെയ്യുന്നതിനാൽ സംഭരിക്കപ്പെടുന്ന സമ്മർദ്ദ ഊർജ്ജത്തിന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക എനിക്ക് വിള്ളൽ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായ രൂപം ഉണ്ടാകും അതിനാൽ അത് സ്ഥിരീകരണത്തിന്റെ ഒരു മാർഗമാണ് തീർച്ചയായും നമ്മൾ ശരിയായ ദിശയിലാണ് ഇപ്പോൾ നാം ടോർഷന് വിധേയമായ ഒരു അംഗത്തിൽ സംഭരിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നത് ഏറ്റെടുക്കുന്നു നമ്മൾ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളും വലിവുകളും ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പകുതി വോളിയത്തിലേക്ക് സംഭരിക്കുന്ന സ്ട്രെയിൻ ഊർജ്ജം നൽകുന്നു സമാനമായ ഒരു സമീപനം നമ്മൾ ഇവിടെ സ്വീകരിക്കും നിങ്ങൾക്ക് ഒരു ടോർഷൻ ഫോർമുലയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഷിയർ സമ്മർദ്ദത്തിനും ഷിയർ സ്ട്രെയിനിനും എക്സ്പ്രഷൻ ഉണ്ട് മാത്രമല്ല വർദ്ധിക്കുന്ന ഊർജ്ജം 'ടോ θz ഗാമ θz dV' യുടെ പകുതി ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കും പ്രയോഗിച്ച ടോർഷണൽ ആക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മാറ്റിസ്ഥാപിക്കാനാകും കൂടാതെ നിഷ്ക്രിയതയുടെ ധ്രുവീയ ആക്കം 'ഇന്റഗ്രൽ ആർ സ്ക്വയേർഡ് dA' ആയി നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇത് സംയോജനത്തിന് ശേഷം 'Ip' ആയി മാറും അതിനാൽ അന്തിമ പദപ്രയോഗം ഇന്റഗ്രൽ 0 മുതൽ L വരെ Mt സ്ക്വയർ dz നെ 2GIp' കൊണ്ട് ഹരിക്കുന്നു സമ്മർദ്ദ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിക്കുന്ന ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി വളയുന്നതിൽ വാസ്തവത്തിൽ വ്യതിചലനം കണ്ടെത്തുന്നതിന് കാസ്റ്റിഗ്ലിയാനോയുടെ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സമവാക്യങ്ങൾ വികസിപ്പിക്കുകയും വ്യതിചലനം കണ്ടെത്തുന്നതിന് അവ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു ഇത് പുനർവായന മാത്രമാണ് ഇത് അഭികാമ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ടോർഷനുള്ള പദപ്രയോഗമുണ്ട് ബെൻഡിങ്ങിനു സമാനമായ ഒരു പദപ്രയോഗം നിങ്ങൾ കണ്ടെത്തും ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഫ്ലെക്ചർ ഫോർമുലയുണ്ട് സാധാരണ സമ്മർദ്ദത്തിനും സാധാരണ സ്ട്രെയിനിനും നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഉണ്ട് കൂടാതെ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം എഴുതുന്നത് എളുപ്പമാണ് ഇവിടെ നമുക്ക് 'Mb' ഉണ്ട് അത് ബെൻഡിങ് മൊമെൻറ്നെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്നത് വളയുന്നതുമൂലം അംഗത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 0 മുതൽ L വരെ 'Mb സ്ക്വയർ ഹരിക്കണം 2E ഗുണിക്കണം Iz' dx ലേക്ക് സമന്വയിപ്പിക്കുന്നു നമ്മൾ ശരിക്കും മെലിഞ്ഞ അംഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ മെലിഞ്ഞ അംഗം എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷണൽ അളവുകൾ നീളത്തേക്കാൾ വളരെ ചെറുതാണ് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതം ലളിതമാക്കുന്നതിന് വിവിധതരം പ്രായോഗിക പ്രശ്നങ്ങൾ മെലിഞ്ഞ അംഗങ്ങളായി രൂപപ്പെടുത്താം അതിനാൽ ആ കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രധാനമാണ് ഒരു വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ ഊർജ്ജ വ്യതിയാനം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വിള്ളൽ മുന്നേറുമ്പോൾ ഘടകത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഘടകത്തിന്റെ കാഠിന്യം കുറയുമ്പോൾ ദൃശ്യവൽക്കരിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടായ നിമിഷം വ്യക്തമായും കാഠിന്യം മാറും അതിൽ തർക്കമൊന്നുമില്ല അടുത്ത പ്രസ്താവന നമ്മൾ കാണും അടുത്ത പ്രസ്താവന പറയുന്നു ഘടകത്തിലെ സ്ട്രെയിൻ എനർജി കുറയുകയോ കൂടുകയോ ചെയ്യുന്നു ഈ പ്രസ്താവന യോഗ്യമാക്കേണ്ടതു ആവശ്യമാണ് നിങ്ങൾ ഒരു ഉദാഹരണം എടുത്തില്ലെങ്കിൽ അത് നോക്കൂ വിള്ളൽ മുന്നേറുമ്പോൾ എന്തുസംഭവിക്കും ഒരു സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജി വർദ്ധിക്കുന്ന രീതിയിലും മറ്റൊരു സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജി കുറയുന്ന രീതിയിലും ഞങ്ങൾ സാഹചര്യങ്ങൾ ഏറ്റെടുക്കും അതിനാൽ ഇത് സാധ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് കാണാനാകും മറ്റൊരു ചെറിയ വിശദാംശമാണ് ബാഹ്യ ലോഡുകൾ പ്രയോഗിക്കുന്ന ഘടകത്തിന്റെ പോയിന്റുകൾ അനങ്ങുകയോ അനങ്ങാതിരിക്കുകയോ ചെയ്യാം ഫ്രാക്ചർ മെക്കാനിക്സ് ലെക്ചറിലേക്ക് നിങ്ങൾ വരുന്ന നിമിഷം നിങ്ങൾ എല്ലായ്പ്പോഴും സ്ഥിരമായ പിടുത്തങ്ങളെക്കുറിച്ച് സംസാരിക്കും അതിനർത്ഥം നിങ്ങൾ മാതൃകയിൽ നിരന്തരമായ സ്ഥാനചലനം പ്രയോഗിക്കുന്നു ഇത് ഒരു സാധ്യതയാണ് മറ്റൊരു സാധ്യത നിരന്തരമായ ലോഡാണ് എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇത് നമ്മുടെ ഗണിതശാസ്ത്ര വികാസത്തെ സഹായിക്കുന്നു നിങ്ങൾ സ്വതന്ത്രമായി സ്ഥിരമായ ലോഡും നിരന്തരമായ സ്ഥാനചലനവും നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈദ്ധാന്തിക വികാസത്തിനു നാം ചിലതരം ധാരണകൾ വികസിപ്പിക്കും പിന്നീട് വിള്ളൽ രൂപപ്പെടുന്നതിന് ലഭ്യമായ ഊർജ്ജം സ്ഥിരമായ സ്ഥാനചലനം അല്ലെങ്കിൽ നിരന്തരമായ ലോഡിംഗ് എന്നിവയിൽ ഒന്നുതന്നെ ആണ് അവസാനമായി ഒരു പൊതു ലോഡിംഗിനെ നിരന്തരമായ ലോഡിന്റെയും നിരന്തരമായ സ്ഥാനചലനത്തിന്റെയും ചെറിയ ഘട്ടങ്ങളായി കണക്കാക്കാമെന്ന് നമ്മൾ കാണിക്കും ഈ രീതിയിൽ നമ്മൾ നിരന്തരമായ സ്ഥാനചലനത്തിനോ നിരന്തരമായ ലോഡിനോ വേണ്ടി സമയം ചെലവഴിക്കുന്നത് നല്ലതാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തും അതിനാൽ നമ്മൾ ചില ആശയങ്ങൾ വികസിപ്പിക്കുകയും രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ സമവാക്യങ്ങൾ ലളിതമാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത് ഒരു വശത്ത് ഗണിതശാസ്ത്രത്തിന്റെ വികസനം ലളിതമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു മറുവശത്ത് ഇത് ഊർജ്ജ പ്രകാശന നിരക്ക് പരീക്ഷണാത്മകമായി കണക്കാക്കാൻ മീഡിയ വഴിയും നൽകുന്നു അതിനാൽ ഇത് രണ്ട് ഉദ്ദേശ്യങ്ങളും നിറവേറ്റുന്നു അതിനാൽ ഘടകത്തിലെ സമ്മർദ്ദ ഊർജ്ജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഫിക്സഡ് ഗ്രിപ് സാഹചര്യമോ സ്ഥിരമായ ലോഡ് സാഹചര്യമോ ആണോ എന്നാണ് അതിനാൽ എനിക്ക് ഒരു ഫിക്സഡ് ഗ്രിപ് ഉണ്ടെങ്കിൽ ബാഹ്യശക്തി ചെയ്യുന്ന ജോലി 0 ആണ് ശക്തികൾ നീങ്ങുമ്പോൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് സ്ഥിരമായ ലോഡിന്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത് ഈ ചർച്ചകളിലെല്ലാം നാം രണ്ട് പുതിയ ഉപരിതലങ്ങൾ സൃഷ്ടിക്കാൻ ഊർജ്ജം ഉപയോഗിക്കുന്നു എന്ന് ഓർമ്മിക്കേണ്ടതാണ് ഗ്രിഫിത്തിന്റെ പ്രധാന നിരീക്ഷണം ഇതാണ് നിങ്ങൾ ഇൻഗ്ലിസ് സൊലൂഷൻ നേരിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പരിഭ്രാന്തരാകും അത് നിങ്ങളുടെ യഥാർത്ഥ നിരീക്ഷണത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല ഈ ധാരണ കൊണ്ടുവരാൻ രണ്ട് പുതിയ ഉപരിതലങ്ങൾ സൃഷ്ടിക്കാൻ ഊർജ്ജം ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഗ്രിഫിത്ത് ബുദ്ധിമാനായിരുന്നു നമ്മൾ ഒന്നിനുപുറകെ ഒന്നായി എടുക്കും എനിക്ക് നിരന്തരമായ ലോഡ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും ഞാൻ ഒരു ലളിതമായ ഉദാഹരണം എടുത്തു നിങ്ങൾ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാനും ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ സ്കെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇരട്ട കാന്റിലിവർ ബീം മാതൃകയുണ്ട് നിങ്ങൾക്ക് ഒരു നീണ്ട വിള്ളൽ ഉണ്ട് വിള്ളലിന്റെ നീളം a എന്ന് നൽകിയിരിക്കുന്നു നിങ്ങളുടെ ദൃശ്യവൽക്കരണം എളുപ്പമാക്കുന്നതിന് ഇത് ഒരു കേബിൾ സംവിധാനത്തിലൂടെ വ്യക്തമായി കാണിക്കുന്നു നിങ്ങൾ ഒരു ലോഡ് തൂക്കിയിരിക്കുന്നു P അതിനാൽ ഈ ഘടകത്തിൽ നിങ്ങൾക്ക് നിരന്തരമായ ലോഡ് പ്രയോഗിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയുമെന്നും വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ക്രമേണ 0 മുതൽ P വരെ പോകാം കൂടാതെ നിങ്ങൾക്ക് P യുടെ മൂല്യവും സ്ഥാനചലനവും രേഖപ്പെടുത്താം അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രാഫ് ലഭിക്കും കൂടാതെ 'a' നീളമുള്ള വിള്ളൽ ഉള്ള ഘടകത്തിനായി ഈ ഗ്രാഫ് ലഭിക്കും ഇപ്പോൾ ചില വഴികളിലൂടെ എനിക്ക് സമാനമായ മറ്റൊരു ഘടകമുണ്ട് അതിൽ വിള്ളലിന്റെ നീളം 'a' അല്ല പക്ഷേ അത് 'da' ആയി വർദ്ധിക്കുന്നു അതിനാൽ എനിക്ക് 'a കൂട്ടണം da' ഉള്ള വിള്ളൽ ഉണ്ട് ലോഡ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറിനെ പ്ലോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഗ്രാഫ് എങ്ങനെ ആകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇപ്പോൾ ഒരു വലിയ വിള്ളൽ ഉണ്ട് അതിനാൽ തീർച്ചയായും കാഠിന്യം കുറയുന്നു അതിനാൽ ഗ്രാഫ് മുമ്പത്തേതിന് താഴെയായിരിക്കും ചരിവ് വ്യത്യസ്തമായിരിക്കും ഇതും റെക്കോർഡുചെയ്യാനാകും കൂടാതെ നിങ്ങൾക്ക് 'a പ്ലസ് da' എന്നതിനായുള്ള ഒരു ഗ്രാഫ് ഉണ്ട് മനസിലാക്കുക ഈ അധ്യായത്തിൽ ഒരു വിള്ളലിന് ക്രമാതീതമായി വളരാൻ ആവശ്യമായ ഊർജ്ജം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ അതിലേക്ക് പോകുന്നു അതിനായി ഊർജ്ജ ബാലൻസ് സമവാക്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം പശ്ചാത്തല വിവരങ്ങൾ വികസിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ സമാനമായ രണ്ട് ഘടകങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് 'a' നീളമുള്ള വിള്ളലുണ്ട് മറ്റൊന്ന് നിങ്ങൾക്ക് നീളമുള്ള ഒരു 'a പ്ലസ് da' വിള്ളൽ ഉണ്ട് ഈ കണക്കുകളും വളരെ ശ്രദ്ധാപൂർവ്വം വരച്ചിരിക്കുന്നു കാഠിന്യം കുറവായതിനാൽ ഈ ലോഡ് കുറഞ്ഞു ഇപ്പോൾ ഞാൻ ഇതിലെ ഭാരം ക്രമേണ വർദ്ധിപ്പിക്കും അതിനാൽ ഒരു പ്രത്യേക ലോഡിൽ വിള്ളൽ 'da' ദൂരത്തേക്ക് മുന്നേറുന്നു ആദ്യ കേസിലും രണ്ടാമത്തെ കേസിലും സംഭരിച്ചിരിക്കുന്ന സ്ട്രെയിൻ എനർജി എന്താണെന്ന് കണ്ടെത്തുന്നതിന് നമ്മൾ ഇത് ഗ്രാഫിക്കലായും നമ്മുടെ താൽപ്പര്യമെന്താണെന്നും നോക്കും വിള്ളൽ 'da' മുന്നേറുമ്പോൾ സ്ട്രെയിൻ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി അഭിപ്രായമിടും അതാണ് നമ്മുടെ അവസാന ലക്ഷ്യം അതിനാൽ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് ഞാൻ ലോഡ് വർദ്ധിപ്പിക്കുകയും ലോഡ് ഒരു മൂല്യം P1 ആയി വർദ്ധിക്കുമ്പോൾ വിള്ളൽ മുന്നേറാൻ തുടങ്ങുകയും അത് dv അകലത്തിൽ നീങ്ങുകയും ചെയ്യും ആനിമേഷൻ വളരെ മനോഹരമായി ചെയ്തു ഞാൻ ഒരു പരീക്ഷണം നടത്തുന്നതുപോലെ ആനിമേഷൻ കാണിക്കുന്നു അതിനാൽ ഇത് പോയി ഈ ഗ്രാഫിൽ സ്പർശിക്കും സിസ്റ്റത്തിന്റെ അന്തിമ സ്ട്രെയിൻ എനർജി എന്താണെന്നും ക്രാക്കിന്റെ വർദ്ധനവ് കാരണം സ്ട്രെയിൻ എനർജി എങ്ങനെ മാറിയെന്നും വിശകലനം ചെയ്യാൻ എനിക്ക് മതിയായ ഡാറ്റയുണ്ട് ഒരു സ്പ്രിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതിനകം കണ്ടു ലോഡ് ഡിഫ്ലെക്ഷൻ ഗ്രാഫ് നിങ്ങൾ കണ്ടു ഗ്രാഫിന് താഴെയുള്ള പ്രദേശം സംഭരിച്ച സ്ട്രെയിൻ എനർജിയാണ് ഇവിടെ വീണ്ടും ലോഡുകൾ ക്രമേണ പ്രയോഗിക്കുന്നു അതിനാൽ വ്യത്യാസം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് സമാനമായ സമീപനം ഉപയോഗിക്കാൻ കഴിയും അവസാന സ്ട്രെയിൻ എനർജി കുറക്കണം പ്രാരംഭ സ്ട്രെയിൻ എനർജി ഞാൻ കണ്ടെത്തും നമുക്ക് ഇപ്പോൾ നോക്കാം അതിനാൽ സ്ട്രെയിൻ എനർജിയുടെ മാറ്റം എന്താണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവസാന സ്ട്രെയിൻ എനർജി ഈ ലൈനിന് താഴെയുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഈ ത്രികോണാകൃതിയിലുള്ള ഏരിയയുണ്ട് അത് P1 ന്റെ പകുതി ഗുണിക്കണം v2 നൽകുന്നു ഓർക്കുക നമ്മൾ നിരന്തരമായ ലോഡിംഗിന്റെ ഒരു കേസാണ് നോക്കുന്നത് അതിനാൽ ഒരു സ്ഥിരമായ ലോഡിന്റെ കാര്യത്തിൽ എനിക്ക് P1 സ്ഥിരമായി തുടരുന്നു അതിനാൽ അവസാന സ്ട്രെയിൻ എനർജി P1 ന്റെ പകുതി ഗുണിക്കണം v2 ആണ് പ്രാരംഭ സ്ട്രെയിൻ എനർജി എന്താണ് അത് ഈ ഗ്രാഫിന് താഴെയാണ് ഈ ലൈനിന് താഴെയാണ് ഇത് ഈ ലൈനിന് താഴെയാണ് നിങ്ങൾക്ക് ഈ ത്രികോണ ഏരിയയുണ്ട് ഗണിതശാസ്ത്രപരമായി ഇത് P1 ന്റെ പകുതി ഗുണിക്കണം v1 ആണ് അതിനാൽ സ്ട്രെയിൻ എനർജിയുടെ മാറ്റം എന്താണ് അതാണ് ഈ ചെറിയ ത്രികോണം നിങ്ങൾ ഇവിടെ കാണുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം പരീക്ഷണവും ഇങ്ങനെയാണ് അതിനാൽ നിങ്ങൾക്ക് ഊർജ്ജ പ്രകാശന നിരക്ക് എത്രയാണെന്ന് പരീക്ഷണാത്മകമായി കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് ഇവിടെയുള്ളത് എനിക്ക് ഇത് P1 ന്റെ പകുതി ഗുണിക്കണം dv എന്ന് ലഭിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജി ക്രമേണ വർദ്ധിക്കുന്നു ഇത് വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾക്ക് ഈ ത്രികോണം ഉണ്ട് ഈ ത്രികോണ പ്രദേശം പ്രാരംഭ ത്രികോണത്തേക്കാൾ വളരെ വലുതാണ് അതിനാൽ സ്ഥിരമായ ലോഡ് സാഹചര്യത്തിൽ വിള്ളലിന്റെ പുരോഗതിയിലൂടെ സിസ്റ്റത്തിന്റെ സ്ട്രെയിൻ എനർജി വർദ്ധിക്കുന്നു ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ബാഹ്യ ലോഡ് ഉണ്ട് കൂടാതെ ബാഹ്യ ലോഡ് പരിമിതമായ ദൂരത്തേക്ക് നീങ്ങി ഇത് ഒരു പരിമിത ദൂരം dv നീക്കി ഈ പ്രക്രിയയിൽ എത്രയാണ് പണി ചെയ്തത് W ന്റെ പകുതി ഗുണിക്കണം dv ആണോ അതോ W ഗുണിക്കണം dv ആണോ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് ലോഡ് ക്രമേണ പ്രയോഗിക്കുന്നത് എല്ലായിടത്തും നാം കാണുന്നു എന്നാൽ ഇതിൽ സംഭവിക്കുന്നത് അല്പം വ്യത്യസ്തമാണ് നിങ്ങൾ കണ്ടെത്തുന്നത് ലോഡ് P1 എത്തുമ്പോൾ പെട്ടെന്ന് വിള്ളൽ 'a കൂട്ടണം ഡെൽറ്റ a' ലേക്ക് ഉയർന്നു പക്ഷേ ലോഡ് അതേപടി തുടരുന്നു ഇതിന് dv യുടെ സ്ഥാനചലനം സംഭവിച്ചു അതിനാൽ ചെയ്ത ബാഹ്യ ജോലി P1 ഗുണിക്കണം dv ആണ് അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് ചതുരാകൃതിയിലുള്ള പ്രദേശം നമ്മൾ തെറ്റ് ചെയ്യരുത് എല്ലായിടത്തും നമ്മൾ P1 ന്റെ പകുതി ഉപയോഗിക്കുന്നു ഇതും P1 ന്റെ പകുതിയാണെന്ന് നിങ്ങൾ പറയരുത് ഇത് യഥാർത്ഥത്തിൽ P1 ഗുണിക്കണം dv ആണ് നമ്മൾ ഇവിടെ പഠിച്ചത് 'എ' മുതൽ 'a പ്ലസ് da' വരെ നിരന്തരമായ ലോഡിൽ വിള്ളലിന് പുരോഗതി ഉണ്ടാകുമ്പോൾ സിസ്റ്റത്തിന്റെ സ്ട്രെയിൻ എനർജി വർദ്ധിക്കുന്നു നിരന്തരമായ ലോഡിംഗിന് കീഴിലുള്ള വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനർജി വ്യതിയാനം ഇപ്പോൾ സ്ഥിരമായ സ്ഥാനചലനത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നു അതിനാൽ ഇവിടെ വീണ്ടും ഞാൻ ഒരു പ്രശ്നം എടുക്കുന്നു അത് മുമ്പത്തേതിനോട് വളരെ സാമ്യമുള്ളതാണ് ഇവിടെ ഇത് ഫിക്സഡ് ഗ്രിപ് ലാണ് നിങ്ങൾക്ക് 'പി വേഴ്സസ് വി' ലഭിക്കുമ്പോൾ എനിക്ക് ഇതുപോലുള്ള ഒരു ഗ്രാഫ് ലഭിക്കും വിള്ളൽ അതിനേക്കാൾ ദൈർഘ്യമേറിയതാണെന്ന് കരുതുക ഇതിന് താഴെയുള്ള ഒരു ഗ്രാഫ് എനിക്കുണ്ടാകും 'a പ്ലസ് da' ക്കായുള്ള ലോഡ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഇതാണ് ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുന്നത് വിള്ളൽ 'a' മുതൽ 'a പ്ലസ് da' വരെ വളരാൻ ലോഡ് മതിയാകും എന്നതാണ് ഇത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും വിള്ളൽ മുന്നേറുമ്പോൾ ലോഡ് ക്രമേണ കുറയും കാരണം ഇത് സ്ഥിരമായ സ്ഥാനചലനം ഫിക്സഡ് ഗ്രിപ് ലാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം അതിനാൽ നിങ്ങൾക്കുള്ളത് ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് ലംബമായി ഇതിലേക്ക് നീങ്ങും ആനിമേഷൻ നിരീക്ഷിക്കുക വിള്ളൽ 'a പ്ലസ് da' ആയി വളരുന്നു ക്രാക്ക് 'a പ്ലസ് da' ആയി വളരുമ്പോൾ എനിക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഇതിലേക്ക് പോകേണ്ടിവരും അതുകൊണ്ടാണ് ഇത് ഡോട്ട് ഇട്ട വരയായി ഇടുന്നത് എന്തുകൊണ്ടാണ് ഇത് ഡോട്ട് ഇട്ട വരയായി ഇടുന്നത് ഞാൻ ഒരു മാതൃക എടുത്ത് ഈ ലോഡ് P ആയി എടുക്കുകയാണെങ്കിൽ ഞാൻ ലോഡ് P യിലെത്തുന്ന നിമിഷം വിള്ളൽ മുന്നേറുകയും അടുത്ത ഗ്രാഫിൽ നിന്ന് മാത്രം വ്യാഖ്യാനിക്കുകയും ചെയ്യാം ഇതിന്റെ ഒരു രേഖാചിത്രം ഉണ്ടാക്കുക സ്ട്രെയിൻ എനർജി മാറുന്ന രീതി ഇവിടെ വീണ്ടും കണ്ടെത്തും അതിനാൽ അന്തിമ സ്ട്രെയിൻ എനർജി എന്താണെന്ന് നമ്മൾ നോക്കും പ്രാരംഭ സ്ട്രെയിൻ എനർജി നമ്മൾ നോക്കും ഈ സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജിക്ക് എന്ത് സംഭവിക്കുമെന്ന് അഭിപ്രായപ്പെടും അതിനുമുമ്പ് നിങ്ങൾ ഒരു പ്രധാന നിരീക്ഷണം നടത്തേണ്ടതുണ്ട് വിള്ളൽ മുന്നേറുന്നതിനനുസരിച്ച് സിസ്റ്റത്തിൽ ബാഹ്യ ജോലികളൊന്നും നടക്കുന്നില്ല കാരണം ബാഹ്യ ലോഡ് നീക്കാൻ അനുവദിച്ചിട്ടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നമ്മൾ കാര്യങ്ങൾ വിശദമായി നോക്കുന്നു അതിനാൽ ഈ കേസിൽ ബാഹ്യ ജോലികളൊന്നും നടക്കുന്നില്ല അവസാന ത്രികോണം നോക്കാമെന്ന് നിങ്ങൾക്കറിയാം പ്രാരംഭ ത്രികോണം വളരെ വലുതാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് ഈ സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജി കുറയുന്നു എന്നതാണ് ആദ്യത്തേത് ബാഹ്യ ജോലി 0 ആണ് സ്ട്രെയിൻ എനർജി മാറുന്നു V1 ന്റെ പകുതി ഗുണിക്കണം P2 എന്നത് അവസാനത്തേത് കുറക്കണം ആദ്യത്തേത് ആണ് അതായത് V1 ന്റെ പകുതി ഗുണിക്കണം P1 ഈ സാഹചര്യത്തിൽ ഇത് ഒരു സ്ഥിരമായ സ്ഥാനചലനത്തിലാണ് സംഭവിക്കുന്നത് അതിനാൽ ആദ്യത്തെയും അവസാനത്തെയും കേസുകൾക്ക് 'V' സമാനമായിരിക്കും നിരന്തരമായ സ്ഥാനചലനത്തിന് കീഴിലുള്ള വിള്ളലിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെയിൻ എനർജിയിലെ വ്യതിയാനം സ്ട്രെയിൻ എനർജിയുടെ വ്യത്യാസം എന്താണ് അത് ഈ ത്രികോണമല്ലാതെ മറ്റൊന്നുമല്ല സ്ട്രെയിൻ എനർജി കുറയുന്നുവെന്ന് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം സ്ട്രെയിൻ എനർജിയിലെ മാറ്റം V1 ന്റെ പകുതി ഗുണിക്കണം dP യിലല്ലാതെ മറ്റൊന്നുമല്ല നോക്കൂ ആദ്യത്തെ കേസിൽ നമ്മൾ നിരന്തരമായ ലോഡ് കണ്ടപ്പോൾ സ്ഥാനചലനത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കേസിൽ നമ്മൾ നിരന്തരമായ സ്ഥാനചലനം നോക്കുകയായിരുന്നു ലോഡിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു ഒരു സാഹചര്യത്തിൽ വിള്ളൽ പുരോഗതി കാരണം സ്ട്രെയിൻ എനർജി വർദ്ധിച്ചു മറ്റൊരു സാഹചര്യത്തിൽ വിള്ളൽ പുരോഗതി കാരണം സ്ട്രെയിൻ എനർജി കുറഞ്ഞു അതിനാൽ ഞാൻ തുടക്കത്തിൽ നടത്തിയ പ്രസ്താവനയാണിത് അത്തരമൊരു കാര്യം സംഭവിക്കുമോ എന്ന് വിലമതിക്കാൻ നിങ്ങൾക്ക് അപ്പോൾ ഒരു പശ്ചാത്തലവുമില്ലായിരുന്നു സ്ഥിരമായ ലോഡിനും നിരന്തരമായ സ്ഥാനചലനത്തിനും കീഴിലുള്ള സാഹചര്യം നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു സ്ട്രെയിൻ എനർജിയുടെ മാറ്റങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ ഒരു പൊതു ലോഡിംഗിനായി നോക്കും ലോഡ് മാറ്റം സ്ഥിരമായ സ്ഥാനചലനത്തിലാണോ സ്ഥിരമായ ലോഡിലാണോ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പിക്കുന്നില്ല അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്ന വ്യത്യാസം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ത്രികോണം സ്ട്രെയിൻ എനർജി വ്യത്യാസമായി ഉണ്ട് മറ്റൊരു സാഹചര്യത്തിൽ ഇത് ഇതുപോലുള്ള വെട്ടിച്ചുരുക്കിയ ത്രികോണമാണ് അതിനാൽ എനിക്ക് ഇതുപോലുള്ള ഒരു അധിക ചുവന്ന ഭാഗം ഉണ്ടാകും നമ്മൾ ഏതുതരം പ്രോസസ്സറുകളാണ് നോക്കുന്നതെന്ന് മനസിലാക്കുന്നതിൽ ഗണിതശാസ്ത്രം മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുകയുള്ളൂ ഈ വിഷ്വൽ അനുഭവം നൽകുന്നതിന് ആനിമേഷനും നന്നായി ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം മനസിലാക്കുന്നതിനായി വർദ്ധിച്ചുവരുന്ന ഈ മാറ്റങ്ങൾ നമുക്ക് ഡയഗ്രം സുഖകരമായി വരയ്ക്കാൻ നമ്മൾ വലുതായി കാണിക്കുന്നു

നമുക്ക് ആവശ്യമുള്ള പരിധിയിൽ നിരന്തരമായ ലോഡ് അല്ലെങ്കിൽ സ്ഥാനചലനം പരിഗണിക്കാതെ ഡെൽറ്റ P '0' അല്ലെങ്കിൽ ഡെൽറ്റ V '0' ആയി മാറുന്നു ക്രാക്ക് എക്സ്റ്റൻഷന് ലഭ്യമായ ഊർജ്ജത്തിന്റെ അളവ് ഗണിതശാസ്ത്ര വീക്ഷണകോണിൽ നിന്ന് തുല്യമാണ് എന്ത് സംഭവിക്കും dV ചെറുതാണെന്നും dP 0 വരെയും dA 0 വരെയും പ്രവണത കാണിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും ഈ ത്രികോണത്തിന് എന്ത് സംഭവിക്കും ഈ ത്രികോണം ചുരുങ്ങിക്കൊണ്ടിരിക്കും അതിനാൽ ഈ നിരീക്ഷണത്തിൽ നിന്ന് ഒരു പ്രസ്താവന നടത്താൻ കഴിയും ക്രാക്ക് വിപുലീകരണത്തിന് ലഭ്യമായ ഊർജ്ജത്തിന്റെ അളവ് നിരന്തരമായ ലോഡിനും നിരന്തരമായ സ്ഥാനചലനത്തിനും തുല്യമാണ് ഇത് നോക്കൂ ആനിമേഷൻ നിങ്ങൾക്ക് ആ ശാരീരിക നിരീക്ഷണം നൽകും അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കേസിൽ നിങ്ങൾ ത്രികോണം കാണുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ത്രികോണം കാണില്ല അതിനാൽ നിങ്ങൾ അത് ആ രീതിയിൽ ദൃശ്യവൽക്കരിക്കണം നിങ്ങൾക്ക് സ്വയം തൃപ്തിപ്പെടുത്താനുള്ള ഏക മാർഗ്ഗം അതാണ് ഈ ആനിമേഷൻ നിങ്ങൾക്ക് ആ വിഷ്വൽ എഫക്ട് നൽകുന്നതിനായി നന്നായി ഉപകരിച്ചു അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് പ്രായോഗികമായി ഏതൊരു പൊതു ലോഡിന്റെ സ്ഥാനചലന സ്വഭാവം നിരന്തരമായ ലോഡിന്റെയും സ്ഥാനചലനത്തിന്റെയും വ്യതിരിക്തമായ ഘട്ടങ്ങളായി കണക്കാക്കാം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എനിക്ക് അത് വലുതാക്കി കാണിക്കാൻ കഴിഞ്ഞേക്കും അതിനാൽ എനിക്കുള്ളത് ലോഡും സ്ഥാനചലനവും ഇതുപോലുള്ള ഒരു സാധാരണ രീതിയിൽ വ്യത്യാസപ്പെടാം നിരന്തരമായ ലോഡ് നിരന്തരമായ സ്ഥാനചലനം നിരന്തരമായ ലോഡ് നിരന്തരമായ സ്ഥാനചലനം എന്നിവയുടെ തന്നെ മുന്നോട്ടുള്ള ഘട്ടങ്ങളായി ഇതിനെ കണക്കാക്കാം അതിനാൽ ഈ വ്യായാമത്തിൽ നാം കണ്ടത് സ്ഥിരമായ ലോഡിന്റെയും നിരന്തരമായ സ്ഥാനചലനത്തിന്റെയും രണ്ട് സാഹചര്യങ്ങളിലും ലഭ്യമായ ഊർജ്ജത്തിന്റെ അളവ് തുല്യമാണ് ഒരു സാഹചര്യത്തിൽ ക്രാക്ക് അഡ്വാൻസ് വഴി സ്ട്രെയിൻ എനർജി വർദ്ധിക്കുന്നു മറ്റൊരു സാഹചര്യത്തിൽ ക്രാക്ക് അഡ്വാൻസ് വഴി സ്ട്രെയിൻ എനർജി കുറയുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ തുടർച്ചയ്ക്കായി നമ്മൾ ഇൻഗ്ലിസ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആരംഭിച്ചു നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ സമ്മർദ്ദങ്ങൾ വളരെ ഉയർന്നതായി എന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തി ശാരീരിക നിരീക്ഷണം വിശദീകരിക്കുന്നതിനായി പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ഊർജ്ജം ആവശ്യമാണെന്ന് ഗ്രിഫിത്ത് അതിശയകരമായ ആശയം അവതരിപ്പിച്ചു ഗ്രിഫിത്ത് സ്വീകരിച്ച വളരെ പ്രധാനപ്പെട്ട നടപടിയാണിത് ഇതിനെ ഉപരിതല ഊർജ്ജം എന്ന് വിളിക്കുന്നു എന്നാൽ ഉപരിതല ഊർജ്ജം വളരെ ചെറുതാണ് നിങ്ങൾ ആശയപരമായി പ്രശ്നത്തിലേക്ക് നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണയായി ഇത് രണ്ടാമത്തെ ഓർഡർ ഇഫക്റ്റായി എടുക്കുകയും അവഗണിക്കുകയും ചെയ്യും എഞ്ചിനീയർമാർ ഇത് ചെയ്യും ആവശ്യമുള്ള പ്ലാസ്റ്റിക് ഊർജ്ജത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അത് ഉപരിതല ഊർജ്ജത്തേക്കാൾ വളരെ ഉയർന്നതാണ് പൊട്ടുന്ന വസ്തുക്കളെ അടിസ്ഥാനമാക്കിയാണ് ഗ്രിഫിത്ത് സിദ്ധാന്തം വികസിപ്പിച്ചത് അതിനാൽ ഉപരിതല ഊർജ്ജത്തിന്റെ പങ്ക് തിരിച്ചറിയാൻ അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയപരമായ ഘട്ടമായിരുന്നു അതിനാൽ ഈ അധ്യായത്തിലെ ലക്ഷ്യം ഒരു വിള്ളലിന്റെ മുന്നേറ്റത്തിന് ആവശ്യമായ ഊർജ്ജം എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് അത് ചെയ്യുന്നതിന് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി കണ്ടെത്തുന്നതിന് സോളിഡ് മെക്കാനിക്സിൽ ഒരു പൊതു കോഴ്സിൽ ഞങ്ങൾ പഠിച്ച വിവിധ പദപ്രയോഗങ്ങൾ ഞങ്ങൾ അവലോകനം ചെയ്തു സ്ഥിരമായ ലോഡിനും നിരന്തരമായ സ്ഥാനചലനത്തിനും കീഴിൽ ഒരു വിള്ളലുള്ള ശരീരം വിശകലനം ചെയ്യുന്നതിലേക്ക് നമ്മൾ നീങ്ങി ഒരു സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജി വർദ്ധിച്ചതായി നമ്മൾ കണ്ടെത്തി മറ്റൊരു സാഹചര്യത്തിൽ സ്ട്രെയിൻ എനർജി കുറഞ്ഞു എന്നിരുന്നാലും വർദ്ധിച്ചുവരുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു രണ്ട് സാഹചര്യങ്ങളിലും ഊർജ്ജ ലഭ്യത തുല്യമാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നമ്മൾ കാണും